വോൾടേജ് സ്രോതസ്സിലുള്ള പവറും ഊർജ്ജവും നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഘടകത്തിലുള്ള പവറും ഊർജ്ജവും നിർവചിച്ചതാണ് കൂടാതെ റെസിസ്റ്റർ കപ്പാസിറ്റർ ഇണ്ടക്ടർ എന്നീ ഘടകങ്ങളുടെ പവറും ഊർജ്ജവും നോക്കി എന്നിട്ടു കണ്ടതാണ് ഇത് പാസ്സിവിനു വൈരുദ്ധ്യം ആണെന്ന് ഇനി സ്വതന്ത്ര സ്രോതസ്സുകളുടെ പവറും ഊർജ്ജവും നോക്കാം അതായത് വോൾടേജ് സ്രോതസ്സിന്റെയും കറണ്ട് സ്രോതസ്സിന്റെയും എന്നിട്ട് ഇവ ആക്റ്റീവ് ആണെന്നത് കാണാം അപ്പോൾ ഇതാണ് വോൾടേജ് സ്രോതസ്സ് അത് ഒരു വോൾടേജ് നിലനിർത്തുന്നു അതായത് V V0 അതിലൂടെ ഒഴുക്കുന്ന കറണ്ടിനെ പരിഗണിക്കാതെ എപ്പോഴത്തേതും പോലെ ഞാൻ പാസ്സീവ് സൈൻ കൺവെൻഷൻ ഇവിടെ ഉപയോഗിക്കുന്നു വോൾട്ടേജും കറണ്ടും നിർവചിക്കുവാനായി ഇനി തീർച്ചയായും വേറെ ഏതൊരു ഘടകത്തിന്റെ പോലെയും V യുടെയും I യുടെയും ഗുണനഫലം ആണ് പവർ ഇത് വളരെ പ്രധാനമാണ് വോൾടേജ് സ്രോതസ്സിലേക്ക് കൊടുക്കുന്ന പവർ ആണ് ഇത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ വോൾടേജ് സ്രോതസ്സ് വലിച്ചെടുക്കുന്ന പവർ ഇതാണ് വോൾടേജ് സ്രോതസ്സ് വലിച്ചെടുക്കുന്ന പവർ കൂടാതെ വലിച്ചെടുക്കുന്ന ഊർജ്ജം പവറിന്റെ ഊർജ്ജം ആണ് അതിൽ അസാധാരണമായി ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു സമയപരിധിയിൽ ഉള്ള ഊർജ്ജം കണ്ടുപിടിക്കണം എങ്കിൽ ആ സമയപരിധിയിൽ പവറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക ഇനി ഞാൻ വോൾടേജ് സ്രോതസ്സിന്റെ I V കാരക്ടറിസ്റ്റിക്സ് വരയ്ക്കട്ടെ ഞാൻ അനുമാനിക്കും V0 പോസിറ്റീവ് ആണെന്ന് നമുക്ക് മുന്നത്തെ ചർച്ചയിൽ നിന്ന് അറിയാം V V0 യിൽ കാരക്ടറിസ്റ്റിക്സ്സിൽ ഉള്ളത് വെർട്ടിക്കൽ രേഖ ആണെന്ന് അപ്പോൾ കറണ്ടിനെ പരിഗണിക്കാതെ വോൾടേജ് V0 ആണ് ഇനി നിങ്ങൾ ആദ്യത്തെ വൃത്തപാദത്തിൽ നോക്കിയാൽ v പോസിറ്റീവ് ആണ് I യും പോസിറ്റീവ് ആണ് കൂടാതെ വോൾടേജ് സ്രോതസ്സ് പവർ തരും കാരണം VI ഗുണനഫലം 0 ആണ് ഇനി നിങ്ങൾ നാലാമത്തെ വൃത്തപാദത്തിൽ നോക്കിയാൽ V തീർച്ചയായും 0 ആണ് പക്ഷെ I പൂജ്യത്തെക്കാളും ചെറുതാണ് അതായത് ഈ ദിശയിൽ ഉള്ള I നെഗറ്റീവ് ആണ് അതിന്റെ അർത്ഥം അത് നാലാമത്തെ വൃത്തപാദത്തിൽ ആണെങ്കിൽ കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് ആണ് ഒഴുകുന്നത് ഈ അവസ്ഥയിൽ പവർ പുറത്തേക്ക് കൊടുക്കുന്നു അതിനാൽ വോൾടേജ് സ്രോതസ്സ് ഒന്നെങ്കിൽ പവർ വലിച്ചെടുക്കും അല്ലെങ്കിൽ പവർ പുറത്തേക്ക് കൊടുക്കും കാരണം വോൾടേജ് സ്രോതസ്സിനു പുറത്തേക്ക് പവർ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് ഇതൊരു ആക്റ്റീവ് ഘടകം ആണ് ഇതിന്റെ അർത്ഥം പാസ്സീവ് അല്ല എന്നാണു അതിനാൽ വോൾടേജ് സ്രോതസ്സ് പവർ വലിച്ചെടുക്കാൻ ക്രമീകരിക്കാം പക്ഷെ വോൾടേജ് സ്രോതസ്സ് പവർ പുറത്തേക്ക് കൊടുക്കുവാനും ക്രമീകരിക്കാം അതിനാൽ അത് നാലാമത്തെ വൃത്തപാദത്തിൽ ആണെങ്കിൽ അത് പാസ്സീവ് അല്ല ഇത് ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ സ്പഷ്ടമായി കാണാം ഞാൻ ഒരു 5 വോൾട്ടിന്റെ വോൾടേജ് സ്രോതസ്സ് 1 കിലോ Ω റെസിസ്റ്ററിലേക്ക് ഘടിപ്പിക്കുന്നത് പരിഗണിക്കട്ടെ ഇനി നമ്മൾ ഇത് വളരെ ശ്രദ്ധിച്ചു ചെയ്യും യഥാക്രമമായി ഇത് ചെയ്യണം എന്നില്ല പക്ഷെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ദിശ കണക്കാക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ V1 വോൾട്ടേജ് സ്രോതസ്സിനു കുറുകെ വോൾടേജ് നിർവചിക്കും കൂടാതെ V1 യിൽ ഞാൻ ശെരിയായ പാസ്സീവ് സൈൻ കൺവെൻഷൻ ഉപയോഗിക്കും കൂടാതെ I1 ഈ വിധത്തിൽ നിർവചിക്കും അപ്പോൾ വോൾട്ടേജ് സ്രോതസ്സിനു കുറുകെ ഉള്ള വോൾടേജ് V1 ആണ് വോൾട്ടേജ് സ്രോതസ്സിനു കുറുകെ ഉള്ള കറണ്ട് I1 ആണ് ഇവിടെ നിന്ന് വ്യക്തമാണ് ഞാൻ പാസ്സീവ് സൈൻ കൺവെൻഷൻ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഞാൻ റെസിസ്റ്ററിനും ഇത് തന്നെ ചെയ്യാം ഞാൻ ഈ വോൾടേജ് VR എന്ന് വിളിക്കുന്നു ഈ VR ന്റെ പൊളാരിറ്റി തന്നിട്ടുണ്ട് IR ന്റെ ദിശ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് വെച്ചാൽ അത് റെസിസ്റ്ററിന്റെ പാസ്സീവ് സൈൻ കൺവെൻഷൻ പാലിക്കണം അപ്പോൾ പാസ്സീവ് സൈൻ കൺവെൻഷനോട് കൂടിയാണ് V1 യും I1 യും നിർവചിച്ചിരിക്കുന്നതു VR ഉം IR ഉം നിർവചിച്ചിരിക്കുന്നതും ഇത് പോലെ തന്നെ ആണ് ഞാൻ പറഞ്ഞത് പോലെ നമ്മൾ ഇത് ഔപചാരികമായി ചെയ്യില്ല കാരണം നിങ്ങളെല്ലവരും മനസ്സിലാക്കും VR V1 ആണെന്നും IR I1 ആണെന്നും കൂടാതെ നിങ്ങൾക്ക് കാണാം റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾടേജ് 5 വോൾട്ട് ആണെന്നും കറണ്ട് ഓംസ് ലോ പ്രകാരം IR ആണെന്നും അത് 5 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 കിലോ അതായത് 5 മില്ലി ആമ്പിയർ ആണെന്നും ഇത് വെറുതെ സർക്യൂട്ടിനു അനാലിസിസിനു മാത്രമാണെങ്കിൽ നിങ്ങൾ നിർവചിക്കില്ല കുറെ പരിവർത്തിതവസ്തുക്കൾ പക്ഷെ ഞാൻ ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത് പവർ പ്രെസിപിറ്റേറ്റഡ് ചെയ്തതും ഉണ്ടായതും ആണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ യഥാക്രമത്തിൽ തന്നെ തുടരും അതിനാൽ ഇപ്പോൾ റെസിസ്റ്റർ വലിച്ചെടുത്ത പവർ എന്താണ് VR I R ആണ് അതായത് 5 മില്ലി ആംപ്സ് × 5 വോൾട്ട് അതായത് 25 മില്ലി വാട്ട്സ് അപ്പോൾ ഇവിടെയും ഞാൻ എഴുതട്ടെ VR അതായത് V1 5 വോൾട്ട് IR 5 മില്ലി ആംപ്സ് അത് I1 നു തുല്യം കൂടാതെ വോൾടേജ് സ്രോതസ്സ് വലിച്ചെടുക്കുന്ന പവർ V1 I1 25 മില്ലി വാട്ട്സ് ആണ് അപ്പോൾ ഇതിന്റെ അർത്ഥം വോൾടേജ് സ്രോതസ്സ് വലിച്ചെടുക്കുന്ന പവർ നെഗറ്റീവ് ആണ് വേറെ രീതിയിൽ പറഞ്ഞാൽ അത് പവർ പുറത്തേക് കൊടുക്കുന്നു എനിക്ക് ഇത് വെറുതെ ഒരു സ്രോതസ്സിൽ നോക്കിയോ ഒരു നോഡിൽ നോക്കിയോ പറയുവാൻ സാധിക്കും പക്ഷെ പല ഘടകങ്ങളുടെ കാര്യം വരുമ്പോ അല്ലെങ്കിൽ വോൾടേജ് സ്രോതസ്സിനു പവർ കൊടുക്കാൻ സാധിക്കും എന്ന വസ്തുത വരുമ്പോ ആദ്യം തന്നെ കണക്കുകൂട്ടൽ വളരെ സൂക്ഷിച്ചു ചെയ്തു മുന്നോട്ടു നീങ്ങുക വോൾടേജ്ജും കറണ്ടും ശെരിയായിട്ട് നിർവചിക്കുക അത് കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും അപ്പപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ വോൾടേജ് സ്രോതസ്സ് 25 മില്ലി വാട്ട്സ് പുറത്തേക്ക് കൊടുക്കുന്നു ഇത് റെസിസറ്ററിലേക്ക് പോകുന്നു ഇനി പൊതുവായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ വോൾടേജ് സ്രോതസ്സ് ആണ് ഉള്ളതെങ്കിൽ അതായത് റെസിസ്റ്ററോടെ സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഇവ പാസ്സിവും ആണെങ്കിൽ വോൾടേജ് സ്രോതസ്സ് പവർ പുറത്തേക്ക് കൊടുക്കും എനിക്ക് ഒരൊറ്റ വോൾടേജ് സ്രോതസ്സ് ആണ് ഉള്ളതെങ്കിൽ ഇത് റെസിസ്റ്റർസ് മാത്രമാണ് അടങ്ങിയിട്ട് ഉള്ളതെങ്കിൽ നമുക്ക് പറയാം ഇത് മാത്രം ആണ് സർക്യൂട്ടിലേ പവർ സ്രോതസ്സ് കൂടാതെ ഇത് പവർ പുറത്തേക്ക് കൊടുക്കും നേരേമറിച്ച് നിങ്ങൾക്ക് പല സ്വതന്ത്ര സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ ഈ ചിത്രത്തിനോട് യോജിപ്പ് ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ നടുക്ക് വെച്ച് റെസിസ്റ്ററുകൾ മാത്രം ഉള്ള സർക്യൂട്ട് കാണിച്ചു തരാം മറ്റേ വശത്തു വേറെ സ്രോതസ്സ് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പറയാം ഇത് V1 ഇത് V2 നമുക്ക് ഇതിൽ കൂടുതലും ഉണ്ടാകാം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് V3 ഉണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് കറണ്ട് സ്രോതസ്സുകളും ഉണ്ടാകാം പക്ഷെ ഇപ്പോൾ ഞാൻ വോൾടേജ് സ്രോതസ്സ് മാത്രം കരുതുന്നു ഇപ്പോൾ നമുക്ക് പല സ്രോതസ്സുകളും ഉണ്ട് ഈ സ്രോതസ്സുകൾ എല്ലാം കൂടി സർക്യൂട്ടിലേക്കു പവർ കൊടുക്കുന്നു പക്ഷെ അതിൽ ഓരോന്നും പവർ വലിച്ചെടുക്കുകയോ പുറത്തേക്ക് കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ സാധ്യത ഉള്ളത് V1 പവർ കൊടുക്കാനും രണ്ടു V2 വും കൂടി പവർ വലിച്ചെടുക്കാനും ആണ് അപ്പോൾ ചില സ്രോതസ്സുകൾ പവർ വലിച്ചെടുക്കുകയും ചെയ്യും അതിനും സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത ഉദാഹരണത്തിലെ പോലെ തന്നെ അതിനെ കുറച്ചു കൂടി വ്യാപിപ്പിച്ചപോലെ വേറെ ഉദാഹരണം എടുക്കാം അതിനാൽ ഞാൻ ഒരു 8 വോൾട്ട് സ്രോതസ്സ് പരിഗണിക്കട്ടെ കൂടാതെ 3 വോൾട്ട് സ്രോതസ്സ് പൊളാരിറ്റി ഇങ്ങനെ ഉള്ളത് കൂടാതെ വീണ്ടും 1 കിലോ ഓം റെസിസ്റ്ററുകൾ ഇങ്ങോട്ട് ഘടിപ്പിക്കുകയാണ് ഇനി ഞാൻ വീണ്ടും യഥാക്രമമായി മുമ്പോട്ടുപോകുന്നു V1 എന്ന് അതിനെ വിളിക്കുന്നു പാസ്സീവ് സൈൻ കൺവെൻഷന് വേണ്ടി I1 ഈ ടെർമിനലിലേക്ക് പോകുന്ന രീതിയിൽ എടുക്കണം V1 ആണ് ഈ വോൾടേജ് സ്രോതസ്സിനു കുറുകെ ഉള്ള വോൾടേജ് ഇത് I 1 അതിനാൽ ഞാൻ മനഃപൂർവ്വം V2 ഇങ്ങനെ നിർവചിക്കും ശ്രദ്ധിക്കുക V2 വിന്റെ പൊളാരിറ്റി വോൾടേജ് സ്രോതസ്സിനെ അപേക്ഷിച്ചു വിപരീതമാണ് പക്ഷെ അത് വിഷയം ആക്കണ്ട ഒരിക്കൽ V2 തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എനിക്ക് I2 പരിഗണിക്കണം ഇത് പോലെ പാസ്സീവ് സൈൻ കൺവെൻഷന് വേണ്ടി ഇതുപോലെ തന്നെ ഞാൻ VR ഉം IR ഉം പരിഗണിക്കും അതിനാൽ V1 I1 V2 I2 VR IR എന്നിവ ഓരോന്നും രണ്ടു വോൾടേജ് സ്രോതസ്സിനും റെസിസ്റ്ററിനും തിരഞ്ഞെടുത്തതാണ് പാസ്സീവ് സൈൻ കൺവെൻഷൻ മാറ്റമില്ലാതെ തന്നെ ഇനി ഈ സർക്യൂട്ടിന്റെ അനാലിസിസ് യഥാർത്ഥമാണ് കൂടാതെ നിങ്ങളിൽ പലർക്കും ഇത് മനക്കണ്ണ് വെച്ച് ചെയ്യാൻ സാധിക്കും ഈ കൂട്ടുകെട്ടിനു കുറുകെ ഉള്ള വോൾടേജ് വോൾടേജ് സ്രോതസ്സുകളുടെ സീരിസിൽ ഉള്ള കൂട്ടുകെട്ടിൽ 5 വോൾട്ട് ആണ് ഉള്ളത് അതിനാൽ 5 മില്ലിആംപിയർ റെസിസ്റ്ററിലേക്ക് പോകുന്നുമുണ്ട് ഇനി നമ്മൾ ഈ ഓരോ കറണ്ടും വോൾട്ടേജ്ജും കണക്ക് കൂട്ടുന്നു അതിനാൽ ആദ്യം തന്നെ V1 8 വോൾട്ട് ആണ് കാരണം വോൾടേജ് സ്രോതസ്സിന്റെ അതെ വോൾടേജ് തന്നെ ആണ് I1 ഇങ്ങനെ ആണ് നിർവചിച്ചിരിക്കുന്നതു പക്ഷെ സർക്യൂട്ടിൽ 5 മില്ലിആംപിയർ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ദിശയിൽ ഒഴുകുന്നു അപ്പോൾ I1 5 മില്ലിആംപിയർ ആണ് ഇതിന്റെ ഗുണനഫലം V1 I1 8 വോൾട്ട് വോൾടേജ് സ്രോതസ്സ് വലിച്ചെടുക്കുന്ന പവർ നാൽപതു മില്ലി വോൾട്ട് ആണ് ഇതുപോലെ തന്നെ നിർവചിച്ചിരിക്കുന്ന രണ്ടാമത്തെ വോൾടേജ് സ്രോതസ്സ് V2 3 വോൾട്ട് ആണ് കാരണം V2 ഞാൻ പൊളാരിറ്റി എതിരായിട്ടാണ് എടുത്തിരിക്കുന്നത് പക്ഷെ എന്ത് തന്നെ വന്നാലും V2 മൂന്ന് ആണ് ഇനി താഴേക്ക് ഒഴുകുന്ന കറണ്ട് i2 5 മില്ലി ആംപിയേഴ്സ് ആണ് അപ്പോൾ p2 p × 5 ആണ് അതായത് 15 മില്ലി വാട്ട്സ് ഇതാണ് മൂന്ന് വോൾട്ട് സ്രോതസ്സിൽ വലിച്ചെടുക്കുന്ന പവർ അവസാനം 5 വോൾട്ട് ആണ് റെസിസ്റ്റർ വോൾടേജ് VR കറണ്ട് IR 5 മില്ലി ആംപിയേഴ്സ് ആണ് അപ്പോൾ പവർ pr 25 മില്ലി വാട്ട്സ് ആണ് അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ വോൾടേജ് സ്രോതസ്സും റെസിസ്റ്ററും തീർച്ചയായും പവർ വലിച്ചെടുക്കുന്നു റെസിസ്റ്റർ എന്തായാലും പവർ വലിച്ചെടുക്കും പക്ഷെ വോൾടേജ് സ്രോതസ്സിനു ഈ കേസ്സിൽ ഒന്നെങ്കിൽ പവർ വലിച്ചെടുക്കും അല്ലെങ്കിൽ പുറത്തേക്ക് വിടാം മൂന്ന് വോൾട്ട് സ്രോതസ്സ് പവർ വലിച്ചെടുക്കുന്നു 8 വോൾട്ട് സ്രോതസ്സ് പവർ പുറത്തേക്ക് കൊടുക്കുന്നു അപ്പോൾ അത് കാണിക്കുവാനുള്ള ഒരു ഉദാഹരണമാണ് ഇത് കൂടാതെ സ്വതന്ത്ര വോൾടേജ് സ്രോതസ്സ് പവർ വലിച്ചെടുക്കാം അത് സർക്യൂട്ടിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കും വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ ഒരുപക്ഷേ ഇതിലേക്ക് വിശദമായി പിന്നീട് പോകുമെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്യൂട്ടിന്റെ എല്ലാ ഘടകങ്ങളും വലിച്ചെടുക്കുന്ന പവറിന്റെ മൊത്തം തുക എടുത്താൽ അത് p 1 p 2 p r 0 ആകും ഇതൊരു പോയിന്റ് അല്ല ഇതൊരു പ്രോപ്പർട്ടി ആണ് കൂടാതെ ഇത് 1ആണെന്ന് സ്ഥാപിക്കാൻ സാധിക്കും കിർച്ചോഫ് കറണ്ട് ലോ അല്ലെങ്കിൽ കിർച്ചോഫ് വോൾടേജ് ലോ വഴി അപ്പോൾ സർക്യൂട്ടിലെ എല്ലാ ഘടകങ്ങളും എടുത്താൽ എന്നിട്ട് ഇവ വലിച്ചെടുക്കുന്ന പവർ കണക്കുകൂട്ടിയാൽ അത് Vയുടെയും I യുടെയും ഗുണനഫലം ആയിരിക്കും അതിനാൽ പാസ്സീവ് സൈൻ കൺവെൻഷൻ വഴി ആ എല്ലാ പവറിന്റെയും മൊത്തം തുക 0 ആയിരിക്കും കുറച്ചു സ്രോതസ്സുകൾ പവർ കൊടുക്കാനും കുറച്ചു സ്രോതസ്സുകൾ പവർ വലിച്ചെടുക്കുവാനും ഉണ്ടാകും പക്ഷെ മൊത്തം നോക്കുമ്പോൾ 0 ആയിരിക്കും അപ്പോൾ സംഗ്രഹം എന്താണെന്ന് വെച്ചാൽ വോൾടേജ് സ്രോതസ്സിനു പവർ കൊടുക്കാനും പവർ വലിച്ചെടുക്കുവാനും സാധിക്കും കൂടാതെ അത് നാലാമത്തെ വൃത്തപാദത്തിൽ ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വൃത്തപാദത്തിൽ ആണ് എങ്കിൽ പവർ പുറത്തേക്ക് കൊടുക്കും ആദ്യത്തെതോ രണ്ടാമത്തേതോ വൃത്തപാദത്തിൽ ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് പവർ വലിച്ചെടുക്കും കാരക്ടറിസ്റ്റിക്സ് എപ്പോഴും ആദ്യത്തെതോ മൂന്നാമത്തേതോ വൃത്തപാദത്തിൽ ഉള്ള റെസിസ്റ്റർ ആണെങ്കിൽ അത് എപ്പോഴും പവർ വലിച്ചെടുക്കും തീർച്ചയായും ഞാൻ കണക്കാക്കുന്നത് പോസിറ്റീവ് റെസിസ്റ്ററുകളെ ആണ് നിങ്ങൾക്ക് കുറെ സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്നെങ്കിലും പവർ പുറത്തേക്ക് കൊടുക്കുന്നത് ഉണ്ടാകും മറ്റേത് ഒന്നെങ്കിൽ വലിച്ചെടുക്കുന്നതോ പുറത്തേക്ക് കൊടുക്കുന്നതോ ആകാം ഒരൊറ്റ സ്രോതസ്സുള്ള സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് പവർ പുറത്തേക്ക് കൊടുക്കുന്നതായിരിക്കും